കൂടാതെ VT യും mu n C ox ഉം താപനിലയ്ക് അനുസരിച്ച് വ്യത്യാസപ്പെടുന്നു ഇത് എത്രമാത്രം വ്യത്യാസപ്പെടുന്നുവെന്നും എത്ര VT വ്യത്യാസപ്പെടുന്നുവെന്നും അറിയുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞതും കൂടിയതും എളുപ്പത്തിൽ കണക്കാക്കാം g m ന്റെ പരിധി വളരെ വലുതായിരിക്കാം അതിനാൽ ഒരു ആംപ്ലിഫയറിന്റെ ഗെയിൻ എന്താണ് നിങ്ങൾക്ക് അഞ്ച് മുതൽ ഇരുപത് വരെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഭിക്കും അതിനാൽ ഗെയിനിന്റെയോ gm ന്റെയോ കർശനമായ കൺട്രോൾ നിലനിർത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് അതിനാൽ ഇതിനായി നമുക്ക് gm ന്റെയും I D യുടെയും എക്സ്പ്രെഷൻ പരിശോധിക്കാം ചാനൽ ലെങ്ത് മോഡുലേഷനോ ലാംഡയോ ഇല്ലാതെ ലളിതമായ എക്സ്പ്രഷൻ ഉപയോഗിക്കാം അതിനാൽ ഇത് V G S മൈനസ് V T സ്ക്വയർ തവണ കറൻറ് ഫാക്ടർ ആണ് കൂടാതെ gm നു വേണ്ടി ഉപയോഗിക്കുന്ന എക്സ്പ്രെഷൻ mu n C ox W L VG S V T ആണ് ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് V G S V T യെ √2 എന്ന് എഴുതാം ഞാൻ ചെയ്യുന്നത് V G S V T പരിഹരിക്കുകയാണ് ഇത് mu C ox W L ഉപയോഗിച്ച് സ്വയം പരീക്ഷിക്കുക ഞാൻ അത് അവിടെ സബ്സ്റ്റിട്യൂട്ട് ചെയ്താൽ gm ന് മറ്റൊരു എക്സ്പ്രെഷൻ ലഭിക്കും അത് √2 L I D ആയിരിക്കും അവസാനമായി ഈ രണ്ട് എക്സ്പ്രെഷൻ പരിശോധിച്ചു കൊണ്ട് എനിക്ക് ഇത് ലളിതമായി എഴുതാം V G S V T പ്രകടിപ്പിക്കാനുള്ള മറ്റൊരു മാർഗ്ഗം എന്താണെന്നു വെച്ചാൽ ഞാൻ ചെയ്തത് പദങ്ങളുടെ പുനഃക്രമീകരണം മാത്രമാണ് V G S V T യെ I D യെ മാത്രം ഉപയോഗിച്ച് എഴുതിയിട്ടില്ല V G S V T രണ്ട് സ്ഥലത്തും ദൃശ്യമാകുമെങ്കിലും ഈ എക്സ്പ്രെഷൻ ശരിയാണ് ഇത് ഇതിന്റെ ഒരു പുനഃക്രമീകരണം മാത്രമാണ് ഞാൻ ഇവിടെ അത് സബ്സ്റ്റിട്യൂട്ട് ചെയ്താൽ ഈ ഭാഗം റദ്ദാക്കപ്പെടും കൂടാതെ എനിക്ക് 2 I D V G S V T ലഭിക്കും അതിനാൽ എനിക്ക് g m നായി മൂന്ന് വ്യത്യസ്ത പദപ്രയോഗങ്ങളുണ്ട് ഇവയെല്ലാം ശരിയാണ് അവയെല്ലാം ഒരേ പദപ്രയോഗത്തിന്റെ പുനഃക്രമീകരണമാണ് പക്ഷേ ഓരോന്നും വ്യത്യസ്ത സന്ദർഭത്തിൽ ഉപയോഗപ്രദമാണ് നമ്മൾ V G S ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കുന്നതിൽ അർത്ഥമുണ്ട് ഇവിടെ മറഞ്ഞിരിക്കുന്ന മറ്റ് വേരിയബിളുകളൊന്നുമില്ല ഇവിടെ ഒരു V G S മാത്രമെയുള്ളൂ അത് ഇവിടെ ഓപ്പറേറ്റിംഗ് പോയിൻറ് പദമാണ് അത് ഫിക്സ് ചെയ്തിരിക്കുന്നു അതിനാൽ ഇത് വളരെ എളുപ്പമാണെന്ന് നിങ്ങൾക്ക് മനസിലായി അതിനാൽ കറൻറ് ഫാക്ടറും ത്രെഷോൾഡ് വോൾട്ടേജും നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾക്ക് gm കണ്ടെത്താൻ കഴിയും ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു നിശ്ചിത മൂല്യമുള്ള I D ക്കായി I D യുടെ ഒരു നിശ്ചിത മൂല്യത്തിനായി നമ്മൾ gm ന്റെ മൂല്യം കണക്കാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ കഴിയും കാരണം ഇവിടെ തന്നിട്ടുള്ള ഒരേയൊരു ഓപ്പറേറ്റിംഗ് പോയിൻറ് പദമാണ് I D ഇവിടെ മറ്റ് ഓപ്പറേറ്റിംഗ് പോയിൻറ് പദങ്ങൾ ഒന്നും തന്നെയില്ല ഇത് ചില കണക്കുകൂട്ടലുകൾ നടത്തുന്നതിന് ചില സമയം ഉപയോഗപ്രദമാണ് അത് പിന്നീട് കാണും പക്ഷേ ഇതിന് I D യും VG S ഉം ഉണ്ട് ഇപ്പോൾ നമുക്ക് പ്രധാനമായും ഇത് നോക്കാം അത് നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്നു എന്നാൽ ഇതിനെക്കുറിച്ച് ഒരു പ്രത്യേക കാര്യമുണ്ട് രണ്ടാമത്തെ എക്സ്പ്രെഷൻ എന്താണ് ഞാൻ ഇത് ഇതുപോലെ എഴുതിയാൽ ഇതിനെ കറൻറ് ഫാക്ടർ k n എന്ന് വിളിക്കാം അതിനാൽ ഇതിൽ gm ഉം VT ഉം പ്രത്യക്ഷപ്പെടുന്നു നിങ്ങൾ ഇത് നോക്കിയാൽ kn മാത്രമേ പ്രത്യക്ഷപ്പെടുന്നുള്ളൂ ഈ എക്സ്പ്രെഷൻ ത്രെഷോൾഡ് വോൾട്ടേജിൽ നിന്ന് ഇൻഡിപെൻഡൻറായി കാണപ്പെടുന്നുള്ളൂ അതിനാൽ ഇപ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത് ഉദാഹരണമായി ഈ സാഹചര്യം സങ്കൽപ്പിക്കുക ഈ സർക്യൂട്ടുകളുകൾ എങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ പിന്നീട് കാണും ഇതു ചെയ്യാൻ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് എങ്ങനെ ഫിക്സ് ചെയ്യാമെന്ന് നമുക്കറിയാം ഗേറ്റിനും സോഴ്സിനുമിടയിൽ ഒരു വോൾട്ടേജ് സോഴ്സ് പ്രയോഗിക്കാൻ കഴിയും പ്രായോഗികമായി ഉയർന്ന വോൾട്ടേജിൽ നിന്ന് പ്രവർത്തിക്കുന്ന റെസിസ്റ്റീവ് ഡിവൈഡർ ഉപയോഗിക്കുകയും ഗേറ്റിലും സോഴ്സിലും ആ വോൾട്ടേജ് പ്രയോഗിക്കുകയും ചെയ്യുന്നു അതിനാൽ V G S മൂന്ന് വോൾട്ടുകളായി നിശ്ചയിച്ചിട്ടുള്ള ഒരു സാഹചര്യം നമുക്ക് സങ്കൽപ്പിക്കാം ട്രാൻസിസ്റ്റർ സ്വഭാവസവിശേഷതകളുടെ വ്യതിയാനത്തിന്റെ ഫലം കണ്ടെത്തുക എന്നതാണ് നമ്മൾ ഇപ്പോൾ ചെയ്യാൻ ശ്രമിക്കുന്നത് അതിനാൽ നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് സജ്ജീകരണം ഉണ്ടെന്ന് സങ്കൽപ്പിക്കുക അവിടെ നിങ്ങൾ V G S ന്റെ മൂല്യം മൂന്ന് വോൾട്ടായും VDS നെ എന്തെങ്കിലുമായും സജ്ജമാക്കുന്നു അതിനാൽ ഇത് സാച്ചുറേഷൻ മേഖലയിലാണ് നിങ്ങൾക്ക് ട്രാൻസിസ്റ്ററിനെക്കുറിച്ചുള്ള എല്ലാത്തരം കാര്യങ്ങളും അളക്കാൻ കഴിയും അതിനാൽ ഞാൻ V G S നെ മൂന്ന് വോൾട്ടുകളായി സജ്ജമാക്കി ഈ I D യുടെ gm നെ എനിക്ക് തീർച്ചയായും കണ്ടെത്താൻ കഴിയും എല്ലായിടത്തും ട്രാൻസിസ്റ്റർ സാച്ചുറേഷനിൽ ഉള്ളതാണെന്നും അനുമാനിക്കണം അതിനാൽ അത് വിചാരിച്ചു അതിനാൽ ഇപ്പോൾ ഇതിൽ V T മാറുന്നതായി കണ്ടു V T മാറുന്നതിനനുസരിച്ച് gm മാറുമെന്ന് നമ്മൾ കണ്ടു കാരണം V G S ഫിക്സ്ഡ് ആണ് V T മാറുകയാണെങ്കിൽ ഇത് മാറും കറൻറ് ഫാക്ടർ മാറുകയാണെങ്കിലും g m മാറും അതിനാൽ V T ചില ഡെൽറ്റ V T യായി മാറിയിട്ടുണ്ടെങ്കിൽ അതായത് ആദ്യം യഥാർത്ഥ മൂല്യം V T ഉണ്ടായിരുന്നു പിന്നീട് V T പ്രൈം ആയി മാറുകയും ചെയ്താൽ വ്യത്യാസം ഡെൽറ്റ V Tയും gm പ്രൈം mu n Cox W L V G S ആകും ഇത് ഫിക്സ്ഡ് VT മൈനസ് ഡെൽറ്റ VT ആയിരിക്കും gm പ്രൈം ഡിവൈഡെഡ് ബൈ gm എന്തായിരിക്കും ഈ ഭാഗമാണ് യഥാർത്ഥ gm ഇത് one delta V T V G S V T ആണ് കാരണം gm യഥാർത്ഥത്തിൽ ഡെൽറ്റ VT ഇല്ലാത്ത ഒരു എക്സ്പ്രെഷനായിരുന്നു ഞാൻ gm പ്രൈമിനെ യഥാർത്ഥ gm കൊണ്ട് വിഭജിക്കുന്നു എനിക്ക് ഈ ഒരു ബന്ധം ലഭിക്കുന്നു അതുപോലെ തന്നെ K n എന്നത് K n പ്രൈമിലേക്ക് മാറുകയാണെങ്കിൽ gm പ്രൈം എന്നത് K n പ്രൈം ടൈംസ് VGS മൈനസ് VT ആയിരിക്കും ആദ്യ കേസിൽ മാത്രമാണ് അത് ഉപയോഗിക്കുന്നത് V T മാറുന്നു K n മാറുന്നില്ല രണ്ടാമത്തെ കാര്യത്തിൽ K n മാറിയിട്ടുണ്ടെന്ന് ഞാൻ അനുമാനിക്കുന്നു കറൻറ് ഫാക്ടർ മാറി ത്രെഷോൾഡ് വോൾട്ടേജ് മാറില്ല പ്രയോഗികമായി തീർച്ചയായും രണ്ടും മാറും പക്ഷേ ഇത് ഇഫക്റ്റുകൾ പ്രത്യേകം കണക്കാക്കാൻ ഉപയോഗപ്രദമായ വഴിയാണ് ഈ സാഹചര്യത്തിൽ gm പ്രൈമിനെ gm കൊണ്ട് ഹരിക്കുന്നു അതായത് gm ന്റെ പുതിയ മൂല്യം gm ന്റെ യഥാർത്ഥ മൂല്യവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് K n പ്രൈം ഹരിക്കണം K n ആണ് അതിനാൽ V T മാറുമ്പോൾ ഇത് gm ൽ ആപേക്ഷിക മാറ്റം നൽകുന്നു കൂടാതെ ഇത് സ്മാൾ V G S V T ൽ അത് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് കാണാം നൽകിയ ഡെൽറ്റ V T യ്ക്ക് ഈ എഫെക്ട് ഇതിലും കൂടുതലായിരിക്കും ഇവിടെ മാറ്റിയ g m ന്റെയും യഥാർത്ഥ gm ന്റെയും അനുപാതം കറൻറ് ഫാക്ടറിന്റെ അനുപാതത്തോട് തുല്യമാണ് ഇതാണ് ഫിക്സ്ഡ് V G S ന്റെ സാഹചര്യങ്ങൾ അതിനാൽ ഇപ്പോൾ വേറൊരു കാര്യം ചെയ്യാം ഫിക്സ്ഡ് കറൻറിന്റെ സാഹചര്യം പരിശോധിക്കാം ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഞാൻ കൃത്യമായി വിശദീകരിക്കാം പിന്നീട് ഞാൻ അർത്ഥമാക്കിയത് എങ്ങനെ കിട്ടും എന്നും കാണാം ഇവിടെ എന്റെ ട്രാൻസിസ്റ്റർ എടുക്കാം അതിന് 3 വോൾട്സും ഇരുനൂറ് മൈക്രോ ആമ്പിയറിന്റെ കറൻറും ഉണ്ടായിരുന്നു എന്റെ രീതി ഗേറ്റിനും സോഴ്സിനുമിടയിൽ 3 വോൾട്ട് വിതരണം ചെയ്യുകയായിരുന്നു കറൻറ് 200 മൈക്രോ ആമ്പിയറും g m 200 മൈക്രോ സീമെൻസുകളാണെന്ന് പ്രതീക്ഷിക്കുന്നു അതിനാൽ ഇപ്പോൾ ഞാൻ ഒരു ട്രാൻസിസ്റ്റർ വാങ്ങുമ്പോൾ മറ്റൊരു വഴി പരീക്ഷിക്കുന്നു V T തുടങ്ങിയവ എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ ചെയ്യുന്നത് വേരിയബിൾ ആയ ചില V G S പ്രയോഗിക്കുന്നു എനിക്ക് ഇവിടെ അമ്മീറ്റർ ഉണ്ട് കൂടാതെ ഇത് 200 മൈക്രോ ആമ്പിയറുകളുടെ ഒരു കറന്റ് നൽകുന്ന V G S ന്റെ മൂല്യം ഞാൻ സജ്ജമാക്കും ഇവിടെ മുഴുവൻ സർക്യൂട്ടും ഞാൻ കാണിക്കുന്നില്ല നമുക്ക് ഡ്രെയിൻ ഓപ്പൺ സർക്യൂട്ട് ആയി വിടാൻ പറ്റില്ല ഇത് എവിടെയെങ്കിലും കണക്റ്റുചെയ്തിട്ടുണ്ടെന്ന് കരുതുക അത് വോൾട്ടേജ് സോഴ്സിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു അത് V D S ഉണ്ടാക്കുന്നു അതിനാൽ ഞാൻ ഇത് വ്യക്തമായി കാണിക്കാം ഇത് ഓപ്പറേറ്റിംഗ് പോയിന്റ് V D S സജ്ജമാക്കുന്നു എന്നാൽ ഈ സാഹചര്യത്തിൽ എനിക്ക് ഏത് ട്രാൻസിസ്റ്റർ ഉണ്ടെങ്കിലും ഞാൻ ഇരുനൂറ് മൈക്രോ ആമ്പിയർ കറന്റിൽ അത് വരുന്നത് വരെ ഞാൻ V G S വ്യത്യാസപ്പെടുത്തും എന്നിട്ട് നിർത്തും അതിനർത്ഥം ഞാൻ ഒരു നിശ്ചിത I D ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് അതിനാൽ V G S നെ മൂന്ന് വോൾട്ടുകളായി തിരഞ്ഞെടുക്കുന്നതിന് പകരം I D 200 മൈക്രോ ആമ്പിയറുകളായി തിരഞ്ഞെടുക്കും അതിനാൽ ഈ സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും ഈ കേസിൽ എടുത്തിരിക്കുന്ന എക്സ്പ്രെഷൻ √2 L I D ആണ് ത്രെഷോൾഡ് വോൾട്ടേജിൽ മാറ്റമുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ഈ എക്സ്പ്രഷനിൽ V T ഇല്ലാത്തതിനാൽ V T യുടെ പുതിയ മൂല്യം പഴയ മൂല്യം പ്ലസ് ഡെൽറ്റ V T ആകില്ല അതിനാൽ gm പ്രൈം gm ന് തുല്യമായിരിക്കും ഇത് 200 മൈക്രോ ആമ്പിയറിൽ കറന്റ് നിലനിർത്തുന്നുവെന്ന് അനുമാനിച്ചുകൊണ്ടാണ് K n കറൻറ് ഫാക്ടർ K n പ്രൈം എന്ന പുതിയ കറന്റ് ഫാക്ടറിലേക്ക് മാറുന്നുണ്ടോ എന്ന് നോക്കാം gm നുള്ള ഈ എക്സ്പ്രഷനിൽ സ്ക്വയർ റൂട്ടിനുള്ളിൽ K n ഉണ്ടെന്ന് നിങ്ങൾ കാണുന്നു പുതിയ gm ന്റെയും പഴയ gm ന്റെയും അനുപാതം √ K n പ്രൈം K n ആയിരിക്കും അതിനാൽ എല്ലാം ഒരുമിച്ച് ചേർത്താൽ ഡ്രെയിൻ കറന്റ് I D ഫിക്സ് ചെയ്താൽ gmലെ വ്യത്യാസം വളരെ ചെറുതാണെന്ന് നമുക്ക് കാണാം എല്ലാം ഒരു പട്ടികയിൽ ഉൾപ്പെടുത്തട്ടെ ഒരു ഫിക്സ്ഡ് V G S എന്നു പറഞ്ഞാൽ V T K n എന്നിവയുടെ നോമിനൽ വാല്യൂവിൽ V G S കണക്കാക്കിയിട്ടുണ്ടെന്ന് ഞാൻ അർത്ഥമാക്കുന്നു അതായത് V T യുടെ ചില മൂല്യം 1 വോൾട്ട് ആണെന്നും K n ന്റെ മൂല്യം 100 മൈക്രോ ആമ്പിയർ പെർ വോൾട്ട് സ്ക്വയർ ആണെന്നും പറയാം എനിക്ക് ആവശ്യമുള്ള g m വാല്യൂ എനിക്കറിയാം അതിനാൽ ഞാൻ V G S കണക്കാക്കുന്നു നമ്മുടെ ഉദാഹരണത്തിൽ അത് മൂന്ന് വോൾട്ടായിരുന്നു അതിനായി കറൻറ് 100 മൈക്രോ ആമ്പിയറുകളാണ് ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം ഇതാണ് നമ്മൾ നിരവധി ട്രാൻസിസ്റ്ററുകൾ വാങ്ങുമ്പോഴോ വ്യത്യസ്ത താപനിലയിൽ ഒരേ ട്രാൻസിസ്റ്റർ പ്രവർത്തിപ്പിക്കുമ്പോഴോ എനിക്ക് V T സമാനമായി കിട്ടില്ല k n നും സമാനമായി കിട്ടില്ല അവയെല്ലാം വ്യത്യസ്തമായിരിക്കും ഈ സാഹചര്യങ്ങളിൽ എന്തുചെയ്യണമെന്നതാണ് ചോദ്യം ഞാൻ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് സ്ഥിരമായി നിലനിർത്തണോ അതോ എങ്ങനെയെങ്കിലും ട്രാൻസിസ്റ്ററിലൂടെ ഒരേ വൈദ്യുത പ്രവാഹം നടത്തണോ എന്നതാണ് നിശ്ചിത വോൾട്ടേജ് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമോയെന്ന് നമുക്ക് പരിശോധിക്കാം കറന്റ് ഫിക്സ്ഡ് ആയി നിലനിർത്തുകയാണെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിക്കുമോയെന്നും നോക്കാം ആദ്യം നമുക്ക് ത്രെഷോൾഡ് വോൾട്ടേജ് ഡെൽറ്റ V T ആയി മാറുമ്പോൾ എന്തുസംഭവിക്കുമെന്ന് നോക്കാം പക്ഷേ K n അതേപടി നിലനിൽക്കുന്നു നമ്മൾ ഇത് ഇതിനകം വിലയിരുത്തി പുതിയ gm ന്റെയും പഴയ gm ന്റെയും അനുപാതം 1 Δ VT V G S V T ആണ് ഈ സാഹചര്യത്തിൽ ഫിക്സ്ഡ് I D യുടെ കാര്യത്തിൽ ഇത് വൺ മാത്രമാണ് കാരണം V T ക്ക് യാതൊരു എഫെക്ടുമില്ല അതുപോലെ K n ലെ മാറ്റം മാത്രം ഞാൻ പരിഗണിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും പുതിയ gm ന്റെയും പഴയ gm ന്റെയും അനുപാതം കറൻറ് ഫാക്ടറിന്റെ അനുപാതമായിരിക്കും അതേസമയം ഫിക്സ്ഡ് ID യുടെ കാര്യത്തിൽ അത് കറൻറ് ഫാക്ടറിന്റെ സ്ക്വയർ റൂട്ടാണ് അതിനാൽ ഈ സാഹചര്യത്തിൽ gm പ്രൈം ബൈ gm ഒന്നിനോട് വളരേ അടുത്താണെന്നു എളുപ്പത്തിൽ പറയാൻ സാധിക്കും ഒന്നാമതായി V T മാറുമ്പോൾ വലിയ എഫെക്ട് ഇല്ല അത് നല്ലതാണ് എന്നാൽ കറൻറ് ഫാക്ടർ മാറുമ്പോൾ നമുക്ക് സ്ക്വയർ റൂട്ട് ഉണ്ടാകുന്നു K n പ്രൈം 1 1 K n ആണെന്ന് കരുതുക അതായത് കറൻറ് ഫാക്ടർ 10 ശതമാനം വർദ്ധിക്കുന്നത് അതിനാൽ ഈ സാഹചര്യത്തിൽ ഈ നമ്പർ 1 1 g m ആയിരിക്കും ഇതും പത്ത് ശതമാനം വർദ്ധിക്കുന്നു എന്നാൽ ഈ സാഹചര്യത്തിൽ ഇത് ഏകദേശം 1 05 ആയിരിക്കും വളരെ ചെറിയ മൂല്യങ്ങൾക്കായി x √1 x എന്നത് ഏകദേശം 1 x 2 ആണെന്നുള്ള ബന്ധം നിങ്ങൾക്കറിയാമെന്ന് ഞാൻ കരുതുന്നു അതിനാൽ 1 1 ന്റെ സ്ക്വയർ റൂട്ട് അതായത് 1 0 1 ന്റെ സ്ക്വയർ എന്നത് ഏകദേശം 1 05 ആണ് അല്ലാത്തപക്ഷം നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കണക്കാക്കാം ഇതിന് അടുത്തു വരുന്നതായി കാണാം അതിനാൽ കറൻറ് ഫാക്ടർ പത്ത് ശതമാനം മാറിയാലും gm ഈ കേസിൽ അഞ്ച് ശതമാനം മാത്രമേ മാറുന്നുള്ളൂ അതിനാൽ ഈ ബയാസിങ് V G S ന്റെ മൂല്യങ്ങൾ ഫിക്സ് ചെയ്യുന്നു അത് സ്വാഭാവികമാണെങ്കിലും നമ്മൾ അത് ആരംഭിച്ചത് ഇത് ചെയ്യുന്നതിനുളള വളരെ നല്ലൊരു മാർഗ്ഗത്തിലായിരുന്നില്ല ഇത് വളരെ ശക്തമല്ല മാത്രമല്ല താപനിലയും വ്യത്യസ്ത ഉപകരണങ്ങളും ഉപയോഗിക്കുമ്പോഴും gm വളരെയധികം മാറുന്നു അതേസമയം ഇതിലും ഇത് മാറുന്നു പക്ഷേ വളരെ കുറഞ്ഞ അളവിലാണ് അതിനാൽ നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ടത് ഗേറ്റ് സോഴ്സ് വോൾട്ടേജല്ല കറൻറ് ഫിക്സ്ഡ് ആയിട്ടുള്ള ട്രാൻസിസ്റ്ററിനെ ബയാസ് ചെയ്യാനുള്ള വഴികൾ കണ്ടെത്തുക എന്നതാണ് വരാനിരിക്കുന്ന പാഠങ്ങളിൽ അത് എങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ കാണും